ഇനി നമുക്ക് നോൺലീനിയർ സർക്യൂട്ടുകൾ പരിഗണിക്കാം ഡയോഡ് പോലെയുള്ള രണ്ട് ടെർമിനൽ നോൺലീനിയർ എലമെന്റ് ഉള്ള ഒരു സർക്യൂട്ട് അത് എങ്ങനെ വിശകലനം ചെയ്യാമെന്ന് നോക്കുക ഒരു വേജ് സോഴ്സ് ഒരു റെസിസ്റ്റർ R ഒരു ഡയോഡ് എന്നിവ ഉപയോഗിച്ച് ഞാൻ ഈ സർക്യൂട്ട് എടുക്കട്ടെ തീർച്ചയായും ഇത് മറ്റേതെങ്കിലും രേഖീയമല്ലാത്ത മൂലകവും ആകാം ഈ VD യിൽ ഉടനീളമുള്ള Vage നെ ഞാൻ വിളിക്കും അതിലൂടെയുള്ള കറന്റ് ID ഇത് എങ്ങനെ വിശകലനം ചെയ്യാം എന്ന് നോക്കാം ഇപ്പോൾ ഇതേ ഘടനയുള്ള ഒരു ലീനിയർ സർക്യൂട്ടിന് R ഉം R1 ഉം ഉണ്ടായിരിക്കണം ഇപ്പോൾ തീർച്ചയായും ഇത് നിങ്ങളുടെ അടിസ്ഥാന ഇലക്ട്രിക്കൽ സർക്യൂട്ടുകൾ ചെയ്തതിന് ശേഷമോ അല്ലെങ്കിൽ അതിനുമുമ്പോ ആയിരിക്കാം ഇതിന് ഒരു നിമിഷം പോലും ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്താണ് പരിഹാരം എന്ന് നിങ്ങൾക്കറിയാം ഇത് റെസിസ്റ്റീവ് ഡിവൈഡർ മാത്രമാണ് ഇത് എങ്ങനെ പരിഹരിക്കാമെന്ന് ഞങ്ങൾ ഇപ്പോൾ കാണും കൂടാതെ ലീനിയർ സർക്യൂട്ടുകളെ അപേക്ഷിച്ച് നോൺലീനിയർ സർക്യൂട്ടുകളുടെ വിശകലനം വളരെ ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും അതിനാൽ ഇപ്പോൾ ഇത് വളരെ ലളിതമായ ഒരു സർക്യൂട്ട് ആണ് അതിനാൽ ഇതൊരു സ്വതന്ത്രമായ വേജ് സോഴ്സാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ നോഡിൽ KCL എന്ന് എഴുതുക എന്നതാണ് അത് നമുക്ക് പരിഹാരം നൽകും അതിനാൽ ആ നോഡിലെ KCL പറയുന്നു ഈ ദിശയിൽ R വഴി ഒഴുകുന്ന കറന്റ് ID യ്ക്ക് തുല്യമാണ് അത് ഒരു ഡയോഡിലൂടെ താഴേക്ക് ദിശയിൽ ഒഴുകുന്നു ഇപ്പോൾ ഡയോഡ് തന്നെ നിങ്ങളോട് ID എന്നത് f ആണെന്ന് പറയുന്നു ഏതൊരു നോൺലീനിയർ എലമെന്റിന്റെയും പൊതുവായ അവസ്ഥ ഇതാണ് ഡയോഡിന്റെ കാര്യത്തിൽ അത് IS ആണ് റെസിസ്റ്റർ R ലെ കറന്റ് ഇത് VS VD ന് തുല്യമാണ് ഇത് റെസിസ്റ്ററിലുടനീളം വേജ് റെസിസ്റ്റൻസ് മൂല്യം കൊണ്ട് ഹരിക്കുന്നു അതിനാൽ ഞങ്ങളുടെ KCL സമവാക്യം ലളിതമായി പറയുന്നത് R f പൊതുവായ നോൺലീനിയറിറ്റി അല്ലെങ്കിൽ ഡയോഡിന്റെ പ്രത്യേക സാഹചര്യത്തിൽ അത് IS ആണ് ഇപ്പോൾ ഇവിടെ ഒരു വേരിയബിൾ മാത്രമേയുള്ളൂ VS ആണ് സോഴ്സ് നമുക്കതറിയാം ഒരേയൊരു വേരിയബിൾ VD ആണ് അതിനാൽ മറ്റുള്ളവയെല്ലാം ഘടകങ്ങളുടെ പരാമീറ്ററുകളാണ് R എന്നത് റെസിസ്റ്ററിന്റെ പരാമീറ്ററാണ് IS എന്നത് ഡയോഡിന്റെ പരാമീറ്ററാണ് Vt എന്നത് അടിസ്ഥാന സ്ഥിരാങ്കമാണ് അതിനാൽ രേഖീയമല്ലാത്ത സമവാക്യങ്ങൾ പരിഹരിക്കുന്നത് നിങ്ങൾക്ക് പരിചിതമായിരിക്കാം ബിസെക്ഷൻ രീതി അല്ലെങ്കിൽ ന്യൂട്ടൺ റാപ്സൺ ആവർത്തനം പോലുള്ള രീതികൾ നിങ്ങൾക്ക് പരിചിതമായിരിക്കാം അതിനാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് എങ്ങനെ സംഖ്യാപരമായി പരിഹരിക്കാമെന്ന് നിങ്ങൾക്കറിയാം കൂടാതെ ലീനിയർ സമവാക്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഫോർമുലയിൽ പൊതുവായ വിപരീതമോ രേഖീയമല്ലാത്ത സമവാക്യങ്ങൾക്ക് പൊതുവായ പരിഹാര ഫോർമുലയോ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ നിങ്ങൾക്ക് ഒരു മാട്രിക്സ് ഇൻവെർഷൻ വഴി ഒരു കൂട്ടം ലീനിയർ സമവാക്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്താനാകും എന്നാൽ രേഖീയമല്ലാത്ത സമവാക്യങ്ങൾക്ക് അത്തരം പൊതുവായ രീതികളൊന്നുമില്ല കൂടാതെ രേഖീയമല്ലാത്ത തരത്തെ ആശ്രയിച്ച് നിങ്ങൾക്ക് വ്യത്യസ്ത രീതികൾ തിരഞ്ഞെടുക്കേണ്ടി വന്നേക്കാം സാധാരണയായി പരിഹാരം സംഖ്യാധിഷ്ഠിതമാണ് കൂടാതെ ഒന്നിലധികം പരിഹാരങ്ങൾ ഉണ്ടാകാം നിങ്ങൾ പരിഹാരത്തിൽ എത്തും എന്നതിന് യാതൊരു ഉറപ്പുമില്ലായിരിക്കാം എന്നാൽ സാധാരണയായി രേഖീയമല്ലാത്ത സമവാക്യങ്ങൾ പരിഹരിക്കാനുള്ള വഴികൾ സംഖ്യാപരമായും ആവർത്തനപരമായും ആണ് തീർച്ചയായും ഈ കോഴ്സിൽ ഞങ്ങൾ അതിലൂടെ കടന്നുപോകില്ല എങ്ങനെയെങ്കിലും പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് ഞങ്ങൾ കരുതുന്നു രേഖീയമല്ലാത്ത സമവാക്യം സ്പഷ്ടമായി പരിഹരിക്കുന്നതിനെ മറികടക്കുക എന്നതാണ് ഞങ്ങൾ ചെയ്യേണ്ടത് കുറഞ്ഞത് കൈ കണക്കുകൂട്ടലുകൾക്കെങ്കിലും അതിനാൽ ഇത് സംഖ്യാപരമായി പരിഹരിക്കാൻ കഴിയും ഇപ്പോൾ എഞ്ചിനീയർമാർക്ക് ഉപയോഗപ്രദമായത് ചിത്രപരമായോ ഗ്രാഫിക്കലായോ പരിഹാരം കണ്ടെത്തുക എന്നതാണ് ഇത് ദൃശ്യവൽക്കരണത്തിന് വേണ്ടിയാണ് ഇപ്പോൾ സാധാരണയായി നിങ്ങൾ സൊല്യൂഷനിൽ കൃത്യത ആവശ്യമുള്ളപ്പോൾ ഗ്രാഫിക്കൽ സൊല്യൂഷനുകൾ ചെയ്യാറില്ല എന്നാൽ സ്വഭാവം ദൃശ്യവൽക്കരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ അത് ചെയ്യുന്നു അതിനാൽ ഈ പ്രത്യേക സർക്യൂട്ടിനായി നമുക്ക് ഇപ്പോൾ അത് ചെയ്യാം ഇപ്പോൾ ആ സാങ്കേതികവിദ്യയും പരിമിതമാണ് അതിനാൽ നിങ്ങൾക്ക് വളരെയധികം വേരിയബിളുകൾ ഉള്ളപ്പോൾ നിങ്ങൾക്ക് മൾട്ടി ഡൈമൻഷണൽ ഗ്രാഫുകൾ വരയ്ക്കാൻ കഴിയില്ല ഈ പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് മാറുന്നു കാരണം നിങ്ങൾക്ക് രണ്ട് വേരിയബിളുകൾ മാത്രമേ ഉള്ളൂ ഒരു വാജും ഒരു കറന്റും അതിനാൽ പരിഹരിക്കേണ്ട സമവാക്യം R ആണ് ഇത് IS ന് തുല്യമാണ് അതിനാൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് പ്രധാനമായും വലതുവശത്തും ഇടതുവശത്തും വെവ്വേറെ പ്ലോട്ട് ചെയ്യാൻ കഴിയും അതിനാൽ ഇടത് വശത്ത് ചില ഫംഗ്ഷനുകൾ ഉണ്ട് വലതുവശത്ത് മറ്റ് ചില ഫംഗ്ഷനുകൾ ഉണ്ട് രണ്ടും എന്റെ സ്വതന്ത്ര വേരിയബിളായ VD യുടെ ഫംഗ്ഷനുകളാണ് സമത്വത്തിന്റെ പോയിന്റ് അല്ലെങ്കിൽ ഇന്റർസെക്ഷൻ പോയിന്റ് എനിക്ക് കണ്ടെത്താനാകും അത് പരിഹാരമാകും ഇപ്പോൾ വലതു വശം ഡയോഡ് കറന്റ് അല്ലാതെ മറ്റൊന്നുമല്ല അതുകൊണ്ടാണ് ഞാൻ അതിനെ ID VS VD എന്ന് അടയാളപ്പെടുത്തിയത് അതിനാൽ വലതുവശം പ്ലോട്ട് ചെയ്യുക അതിനർത്ഥം ഡയോഡ് സ്വഭാവം പ്ലോട്ട് ചെയ്യുക എന്നാണ് അത് അങ്ങനെയാണ് അത് എക്സ്പോണൻഷ്യൽ ആണ് ഇടത് വശം പ്ലോട്ട് ചെയ്യുന്നത് അതാണ് എനിക്ക് പ്ലോട്ട് ചെയ്യേണ്ടത് R VS VD അതിനാൽ ഇത് VD യുടെ ലീനിയർ ഫംഗ്ഷനാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന നേർരേഖ മാത്രമാണിത് അതിനാൽ VD പൂജ്യത്തിന് തുല്യമാകുമ്പോൾ ഈ ഫംഗ്ഷൻ R ന്റെ VS ആയിരിക്കും VD VS ന് തുല്യമാകുമ്പോൾ ഈ ഫംഗ്ഷൻ പൂജ്യമായിരിക്കും കൂടാതെ ഇതിന് ഒരു നെഗറ്റീവ് ചരിവ് ഉണ്ടെന്നും ചരിവ് 1 R ആണെന്നും വ്യക്തമാണ് VD എന്നത് ഇവിടെ സ്വതന്ത്ര വേരിയബിൾ ആണെന്ന് ഓർക്കുക കൂടാതെ ഈ ഫംഗ്ഷനിലെ VD യുടെ ഗുണകം 1 R ആണ് പ്ലോട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് അതിനാൽ VD പൂജ്യമാകുമ്പോൾ അത് VS by R ആണ് VD VS ന് തുല്യമാകുമ്പോൾ അത് പൂജ്യമായിരിക്കും ഇത് ഒരു രേഖ ആയിരിക്കും ഈ രണ്ട് പോയിന്റുകളെ ബന്ധിപ്പിക്കുന്ന നേർരേഖ ഇതിന്റെ ചരിവ് വ്യക്തമായും 1 R ആണ് ഇപ്പോൾ വ്യക്തമായി ഈ സാഹചര്യത്തിൽ ഇന്റർസെക്ഷന്റെ ഒരു പോയിന്റ് മാത്രമേയുള്ളൂ അതാണ് പരിഹാരം ഇപ്പോൾ നിങ്ങൾ ഈ സമവാക്യം സംഖ്യാപരമായി പരിഹരിക്കുകയാണെങ്കിൽ VD യുടെ ഈ മൂല്യം നിങ്ങൾ കണ്ടെത്തും കൂടാതെ R അല്ലെങ്കിൽ ഈ വശവുമായി ബന്ധപ്പെട്ട കറണ്ടിന്റെ മൂല്യം നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അത് കറണ്ടിന്റെ ഈ മൂല്യമായിരിക്കും അതുകൊണ്ട് ഇതാണ് പരിഹാരം അതിനാൽ സമവാക്യത്തിന്റെ വിവിധ ഭാഗങ്ങൾ പ്ലോട്ട് ചെയ്യുന്നതിലൂടെയും ഇന്റർസെക്ഷൻറെ പോയിന്റ് കണ്ടെത്തുന്നതിലൂടെയും അതായത് തുല്യതയുടെ പോയിന്റ് കണ്ടെത്തുന്നതിലൂടെയും നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകും അതിനാൽ എങ്ങനെയെങ്കിലും നിങ്ങൾ സംഖ്യാപരമായോ ഗ്രാഫിക്കലായോ പരിഹാരം കണ്ടെത്തുമെന്ന് പറയുക ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ദൃഷ്ടാന്തം തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സംഖ്യാപരമായി പരിഹരിക്കാനും പരിഹാരം കണ്ടെത്താനും കഴിയും അതിനാൽ ഞാൻ ഒരു കേസ് എടുക്കട്ടെ VS 5 7 V ഉം R 5 kΩ ഉം ഡയോഡിന് 10 15 A സാച്ചുറേഷൻ കറന്റും ഉണ്ട് നിങ്ങൾ ഇത് സംഖ്യാപരമായി പരിഹരിച്ചാൽ VD ഏകദേശം 0 72 V ആണെന്ന് നിങ്ങൾ കണ്ടെത്തും ഡയോഡ് കറന്റ് ഏകദേശം 1mA ആണ് അതാണ് പരിഹാരം VS ന്റെ ഒരു പ്രത്യേക മൂല്യത്തിനായി ഞങ്ങൾ അത് പരിഹരിച്ചുവെന്ന് പറയാം അത് 5 7 V ആണ് ഇപ്പോൾ VS ന്റെ മൂല്യം മാറുന്നു അതിനാൽ അത് 6 7 V ആയി മാറട്ടെ അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇത് വീണ്ടും പരിഹരിക്കേണ്ടതുണ്ട് അത് വളരെ വ്യക്തമാണ് അതിനാൽ ഈ പ്രത്യേക കർവ് പറയട്ടെ ഞാൻ ഇവിടെ കാണിച്ചതെന്തായാലും ഈ പ്രത്യേക സാഹചര്യത്തിൽ VS നെ ആശ്രയിക്കുന്നത് നേർരേഖയുടെ ഭാഗമാണ് ഈ എക്സ്പോണൻഷ്യൽ ഇതിന്റെ വലതുഭാഗം VS ൽ നിന്ന് സ്വതന്ത്രമാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത് പിന്നെ ഇടതു വശം VS നെയാണ് ആശ്രയിക്കുന്നത് അത് ഈ വരിയാണ് അതിനാൽ ഞാൻ ഇതിനകം വരച്ച ഈ പ്രത്യേക ഒന്ന് VS ന് തുല്യമായ 5 7 V ന് തുല്യമാണെന്ന് പറയാം നിങ്ങൾ VS ന്റെ മൂല്യം മാറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇത് വീണ്ടും ചെയ്യണം അതിനാൽ VS 6 7 V ലേക്ക് മാറുന്നുവെന്ന് പറയട്ടെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ലൈൻ ലഭിക്കും നിങ്ങൾക്ക് മറ്റൊരു പരിഹാരം ലഭിക്കും അതിനാൽ VS 6 7 V ആണെന്ന് പറയാം അല്ലെങ്കിൽ VS 4 7 V ആണെങ്കിൽ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു പരിഹാരം ലഭിക്കും നിങ്ങൾക്ക് മറ്റൊരു പരിഹാരം ലഭിക്കും അതിനാൽ ഇത് VS 4 7 V ന് തുല്യമാണ് എന്നതിന് തുല്യമാണ് അതിനാൽ ഏത് സമയത്തും ഇൻപുട്ട് മാറുമ്പോൾ നിങ്ങൾ രേഖീയമല്ലാത്ത സമവാക്യം വീണ്ടും പരിഹരിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇതാണ് ലീനിയർ സർക്യൂട്ടുകളിൽ നിന്നുള്ള വലിയ വ്യത്യാസം അതിനാൽ ഞാൻ ലീനിയർ സർക്യൂട്ടിലേക്ക് മടങ്ങുകയാണെങ്കിൽ ഇത് വളരെ ലളിതമാണെന്ന് ഞാൻ നേരത്തെ വീണ്ടും കാണിച്ചു നിങ്ങൾക്ക് ഇത് പരിഹരിക്കണമെങ്കിൽ ആദ്യം മുതൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും അതിനാൽ ഈ സാഹചര്യത്തിൽ VS ന്റെ പരിഹാരം 5 7 V ന് തുല്യമാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നുവെന്ന് പറയട്ടെ തുടർന്ന് VS 6 7 ആയി മാറുകയാണെങ്കിൽ പുതിയ പരിഹാരം VS ന്റെ പുതിയ മൂല്യത്തിന് ആനുപാതികമാണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ രേഖീയത നിലനിർത്തുന്നു നിങ്ങൾക്ക് ഒന്നിലധികം ഉറവിടങ്ങൾ ഉള്ളപ്പോൾ പോലും എല്ലാ ഉറവിടങ്ങളുടെയും രേഖീയ സംയോജനമായിരിക്കും പരിഹാരം അതിനാൽ നിങ്ങൾ പരിഹാരങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ VS ന്റെ ഒരു പ്രത്യേക മൂല്യത്തിന് സർക്യൂട്ടിലേക്കുള്ള പരിഹാരം നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ സ്കെയിലിംഗ് വഴി മറ്റേതെങ്കിലും മൂല്യത്തിനായി നിങ്ങൾക്ക് അത് കണ്ടെത്താനാകും ഇപ്പോൾ നോൺലീനിയർ സർക്യൂട്ടുകളുടെ കാര്യത്തിൽ ആദ്യം പരിഹാരം കണ്ടെത്തുന്നത് വളരെ സങ്കീർണ്ണമാണ് അതിനു മുകളിൽ നിങ്ങൾ VS ന്റെ മൂല്യം മാറ്റുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും രേഖീയമല്ലാത്ത കണക്കുകൂട്ടലുകൾ നടത്തണം ഇപ്പോൾ ഇൻപുട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കേസ് ഞങ്ങൾക്ക് വളരെ പ്രസക്തമാണ് കാരണം ഞങ്ങളുടെ ആംപ്ലിഫയറിൽ ചില സിഗ്നലുകൾ വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു സിഗ്നൽ സാധാരണയായി സമയം വ്യത്യസ്തമായ ഒരു സിഗ്നലാണ് അതായത് ഞാൻ മൈക്രോഫോണിൽ സംസാരിക്കുമ്പോൾ അത് സർക്യൂട്ടിലേക്ക് വേജ് മാറുന്ന സമയം നൽകുന്നു അതിനാൽ വ്യത്യസ്ത ഇൻപുട്ടുകൾ ഉപയോഗിച്ച് നമ്മുടെ സർക്യൂട്ട് വിശകലനം ചെയ്യാൻ നമുക്ക് കഴിയണം അതിനാൽ സീരീസിലെ രണ്ട് ഉറവിടങ്ങൾ ഉപയോഗിച്ച് ഞാൻ അതേ ഉദാഹരണം കാണിക്കും അതിനാൽ ഇത് 5 7 V ഉറവിടം എന്ന് പറയാം ഇത് ഒരു സിനുസോയ്ഡൽ ഉറവിടമാകാം ഇതിനെയാണ് ഞാൻ സിഗ്നൽ എന്ന് വിളിക്കുന്നത് ഇത് 100 mV sinωt അല്ലെങ്കിൽ 1 V sinωt എന്ന് പറയാം ഈ പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് VD കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അതിനാൽ ഞങ്ങൾ അത് സജ്ജീകരിച്ച രീതി സർക്യൂട്ട് കൃത്യമായി സമാനമാണ് അതിനാൽ സർക്യൂട്ടിൽ പ്രയോഗിക്കുന്ന Vage ഉറവിടം ഇപ്പോൾ സമയം വ്യത്യാസപ്പെടുന്നു അതിനാൽ ഇത് VS ശരിയാണ് ഇതാണ് VS ന്റെ മൂല്യം ഈ സാഹചര്യത്തിൽ VS 5 7 V പ്ലസ് 1V sinωt ആണ് ഞാൻ VS VS സമയം പ്ലോട്ട് ചെയ്താൽ അത് അങ്ങനെയായിരിക്കും സിൻ തരംഗത്തിന്റെ പോസിറ്റീവ് പീക്ക് സമയത്ത് പരമാവധി മൂല്യം 6 7 ആയിരിക്കും ഏറ്റവും കുറഞ്ഞ മൂല്യം 4 7 V ആയിരിക്കും അതിനാൽ ഇത്തരമൊരു ഇൻപുട്ടിനുള്ള പരിഹാരമോ പ്രതികരണ VDയോ നിങ്ങൾ എങ്ങനെ കണ്ടെത്തും നിങ്ങൾ അത് 5 7 ന് കണ്ടെത്തേണ്ടതുണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന VD യുടെ ചില മൂല്യം മുമ്പത്തെ ഗ്രാഫിൽ നിന്ന് കാണുക അതിനാൽ ഇത് 5 7 ന്റെ മൂല്യമാണ് നിങ്ങൾ ഇത് 6 7 4 7 എന്നിങ്ങനെ ചെയ്യേണ്ടതുണ്ട് കൂടാതെ അതിനിടയിലുള്ള നിരവധി പോയിന്റുകളും അതിനാൽ അടിസ്ഥാനപരമായി ഇത് VS ആണ് നിങ്ങൾ VS വ്യത്യസ്തമാക്കിക്കൊണ്ടേയിരിക്കണം കൂടാതെ ഈ നേർരേഖകൾ വരച്ചുകൊണ്ടേയിരിക്കുക പരിഹാരം കണ്ടെത്തി അതിൽ നിന്ന് VD പരിഹാരം പ്ലോട്ട് ചെയ്യുക അതിനാൽ ഇവിടെ എന്തെങ്കിലും പരിഹാരമുണ്ടാകും 5 7 ന് മറ്റെന്തെങ്കിലും 4 7 ന് മറ്റെന്തെങ്കിലും ഇന്റർമീഡിയറ്റ് മൂല്യത്തിന് മറ്റെന്തെങ്കിലും പരിഹാരം തുടങ്ങിയവ ഇത് അങ്ങേയറ്റം ബുദ്ധിമുട്ടാണ് ന്യായമായ ഒരു പ്ലോട്ട് ലഭിക്കാൻ ഈ സൈക്കിളിൽ നിങ്ങൾ നിരവധി പോയിന്റുകൾ എടുക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാം അതിനാൽ ഒന്നാമതായി ഓരോ പോയിന്റിനും പരിഹാരം കണ്ടെത്തുന്നത് വളരെ മടുപ്പുളവാക്കുന്നതാണ് മാത്രമല്ല നിരവധി പോയിന്റുകൾക്കായി ഇത് ചെയ്യുന്നത് അസാധ്യമാണ് അതിനാൽ നിങ്ങൾക്ക് തത്വത്തിൽ ഇതുപോലെ VD കണ്ടെത്താൻ കഴിയും VD യുടെ മൂല്യം ഞങ്ങൾക്കറിയാം ഇൻപുട്ട് 5 7 ആയിരിക്കുമ്പോൾ അത് ഏകദേശം 0 7 V ആണ് അതിനാൽ 0 72 V ആണ് അതിനാൽ ഞാൻ പറഞ്ഞത് അതാണ് അത് 6 7 ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് കണക്കാക്കാം സംഖ്യാപരമായി ഇത് അൽപ്പം ഉയർന്ന ഒന്നായി മാറുന്നു 7 ന് ഇത് കുറച്ച് കുറവായിരിക്കും നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് പോയിന്റുകൾ കണക്കാക്കാനും പരിഹാരം ഒരു തരത്തിൽ കാണപ്പെടുന്നുണ്ടെന്ന് കണ്ടെത്താനും കഴിയും ഇപ്പോൾ ഇത് തത്വത്തിൽ ശരിയാണെങ്കിലും ഇത് പ്രായോഗികമല്ല അതിനാൽ ഞങ്ങൾ ചെയ്യേണ്ടത് നോൺ ലീനിയർ സർക്യൂട്ടുകൾ വിശകലനം ചെയ്യുന്നതിനുള്ള ഒരു ബദൽ മാർഗം കണ്ടെത്തുക എന്നതാണ് അത് ഏകദേശവും എന്നാൽ ചുരുങ്ങിയത് കൈകൊണ്ട് നടപ്പിലാക്കാൻ കഴിയുന്നതും ഞങ്ങളുടെ സർക്യൂട്ടുകളെ കുറിച്ച് എന്തെങ്കിലും ഉൾക്കാഴ്ച ലഭിക്കുന്നതിന് നമുക്ക് ചെയ്യാനുമുള്ളതുമായ എന്തെങ്കിലും ആവും